ആശംസകൾ TALE മൊഡ്യൂൾ 2 യൂണിറ്റ് 13 ലേക്ക് സ്വാഗതം ഞങ്ങൾ നടപ്പാക്കൽ ഘട്ടത്തിലേക്ക് നോക്കുകയായിരുന്നു നടപ്പാക്കൽ ഘട്ടത്തിന്റെ ശേഷിക്കുന്ന ഭാഗവുമായി ഞങ്ങൾ തുടരും മുമ്പത്തെ യൂണിറ്റിൽ നടപ്പിലാക്കൽ ഘട്ടത്തിലെ ചില ഉപ പ്രക്രിയകൾ ഞങ്ങൾ പരിശോധിച്ചു അവ ധാരാളം ഉണ്ട് ചിലതും അവരുടെ പങ്കും ഞങ്ങൾ പരിശോധിച്ചു പ്രത്യേകിച്ചും ഒരു കോഴ്സിന്റെ നല്ല സിലബസ് എങ്ങനെ എഴുതാമെന്ന് ഞങ്ങൾ കോഴ്സിന്റെ തുടക്കത്തിൽ തന്നെ സിലബസിനെ കുറിച്ച് വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തണമെന്ന് ഞങ്ങൾക്ക് തോന്നി അത് അധ്യാപകനും അതുപോലെ വിദ്യാർത്ഥിക്കും ഒരു വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു നിങ്ങളുടെ സ്വന്തം കോഴ്സിന്റെ സിലബസ് ഞങ്ങൾ നിർദ്ദേശിച്ച ഫോർമാറ്റിൽ എഴുതാൻ ശക്തമായി അഭ്യർത്ഥിക്കുന്നു ഈ യൂണിറ്റിൽ നടപ്പിലാക്കൽ ഘട്ടത്തിന്റെ ശേഷിക്കുന്ന പ്രക്രിയകൾ മനസിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്താണ് ഈ പ്രക്രിയകൾ ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ ഷെഡ്യൂൾ ഉണ്ട് അത് ലക്ചർ ഷെഡ്യൂൾ അല്ലെങ്കിൽ ലക്ചർ പ്ലാൻ എന്ന് വിളിക്കാം ഇവിടെ ഷെഡ്യൂൾ ആസൂത്രണം ഒരു മണിക്കൂർ സെഷനുകളുടെ ടൈംടേബിൾ അനുസരിച്ചല്ല മറിച്ച് അത് നിർദ്ദേശയൂണിറ്റ് അനുസരിച്ചാണ് ഒരു നിർദ്ദേശയൂണിറ്റിന് 1 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ എടുത്തേക്കാം പക്ഷേ ഇത് എല്ലായ്പ്പോഴും ഒരുമിച്ച് ഒരു യൂണിറ്റായി കാണപ്പെടും അതിനർത്ഥം ഒരു ഇൻസ്ട്രക്ഷണൽയൂണിറ്റ് 3 ടൈംടേബിൾ മണിക്കൂറുകളിൽ നടത്തിയതാകാം പക്ഷേ ആ മൂന്ന് തീയതികൾ ഇൻസ്ട്രക്ഷൻ ഷെഡ്യൂളിൽ നൽകേണ്ടതുണ്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമായുള്ള ഞങ്ങളുടെ മുഴുവൻ റഫറൻസും ഇൻസ്ട്രക്ഷണൽ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റുകളുടെ ഷെഡ്യൂൾ ആയിരിക്കും ഒരു പ്രബോധന യൂണിറ്റ് ഒരു യോഗ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു കോഴ്സ് ഫലത്തിന്റെ ഒരു ഘടകമാണ് കഴിവ് ഒരു കോഴ്സ് ഫലം കോഴ്സ് ഫലത്തിന്റെ വ്യാപ്തിയെ ആശ്രയിച്ച് 3 അല്ലെങ്കിൽ 4 ചിലപ്പോൾ 5 ആയിരിക്കാം കൂടാതെ ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റും 1 മണിക്കൂർ മുതൽ സാധാരണയായി ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ വ്യത്യാസപ്പെടാം ഓരോ പ്രബോധന യൂണിറ്റും നടത്തുമ്പോൾ സാധാരണയായി 1 മുതൽ 3 മണിക്കൂർ വരെ എടുത്തേക്കാം വിദ്യാർത്ഥികൾക്ക് അത് എങ്ങനെ ലഭിച്ചു എവിടെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു അധ്യാപകനെന്ന നിലയിൽ സുഖം തോന്നാത്ത അവരുടെ പ്രകടനം പര്യാപ്തമാണ് പര്യാപ്തമല്ല അല്ലെങ്കിൽ തൃപ്തികരമാണ് തൃപ്തികരമല്ല എന്നിങനെ അധ്യാപകർ വിവിധ വശങ്ങൾ അനുഭവിച്ചിരിക്കും ഓരോ പ്രബോധന യൂണിറ്റിന്റെയും പെരുമാറ്റത്തിന് തൊട്ടുപിന്നാലെ അത് എങ്ങനെ നടത്തി എവിടെ മെച്ചപ്പെടുത്താം എന്നതുമായി ബന്ധപ്പെട്ട സ്വന്തം നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുന്നത് നല്ലതാണ് ഇതുപോലുള്ള ഒരു ഫോമിൽ ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് നടത്തിയ ഉടനെ അവ റെക്കോർഡുചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് അക്കമിട്ടു കാണിച്ചിരിക്കുന്നതുപോലെ അത് 8 വരെ കാണിക്കുന്നുണ്ടെങ്കിലും ആവശ്യാനുസരണം നിങ്ങൾക്ക് കൂടുതൽ വരികൾ ചേർക്കാൻ കഴിയും തുടർന്ന് യോഗ്യത എഴുതുക ഓരോ യോഗ്യതയ്ക്കും ഷെഡ്യൂൾ ചെയ്ത തീയതികൾ എഴുതുക തുടർന്ന് ആ യൂണിറ്റിനായി വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ IU2 യൂണിറ്റ് ആരംഭിക്കുന്നതിന് മുമ്പാണ് നിങ്ങളുടെ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ നിർദ്ദേശങ്ങൾ 1 അല്ലെങ്കിൽ 2 വാക്യങ്ങളുടെ രൂപത്തിലാകാം ഇത് നിർദ്ദേശ ഷെഡ്യൂളാണ് ഓരോ നിർദ്ദേശ യൂണിറ്റിനും ശേഷം നിങ്ങൾ മറ്റൊരു വരി സൃഷ്ടിക്കുന്നു ഞങ്ങൾ അതിനെ നിരീക്ഷണങ്ങൾ എന്ന് വിളിക്കുന്നു അവിടെ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ 2 അല്ലെങ്കിൽ 3 വാക്യങ്ങളിൽ എഴുതാം കോഴ്സ് പൂർത്തിയായതിന് ശേഷം ഇത് ഇൻസ്ട്രക്ടർക്ക് ഒരു മികച്ച ഇൻപുട്ട് നൽകുന്നു കൃത്യമായി എന്താണ് നിങ്ങൾക്ക് കൃത്യമായി എവിടെ പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് ഞാൻ ഒരു യൂണിറ്റിന് ആവശ്യമായ സമയം കുറച്ചുകാണാം അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് ആവശ്യമായ സമയം ഞാൻ അമിതമായി വിലയിരുത്തിയിരിക്കാം ഈ നിരീക്ഷണങ്ങളെല്ലാം ഈ ഫോർമാറ്റിൽ എഴുതിയതായിരിക്കണം അത് തിരുത്തലുകൾക്കായി ആസൂത്രണം ചെയ്യാൻ ഞങ്ങൾ പിന്നീട് ഉപയോഗിക്കും പല കോളേജുകളിലും ഫാക്കൽറ്റി അംഗങ്ങൾ ടൈംടേബിളിനേക്കാൾ കൂടുതൽ ക്ലാസ് സെഷനുകൾ എടുക്കുന്നു ഉദാഹരണത്തിന് ഒരു 3 ക്രെഡിറ്റ് കോഴ്സ് എടുക്കും നിങ്ങൾ 15 പ്രവൃത്തി ആഴ്ചകൾ എടുത്താലും ഒരു സെമസ്റ്ററിൽ 45 പ്രഭാഷണങ്ങൾ 3 ക്രെഡിറ്റ് കോഴ്സിനായി അധ്യാപകർ 70 80 പ്രഭാഷണങ്ങൾ നടത്തിയ സംഭവങ്ങളുണ്ട് ഇത് ഒരു അർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നു ഈ അധിക സെഷനുകളെല്ലാം ടൈംടേബിളിന് പുറത്താണ് നടത്തുന്നത് അതായത് ഫാക്കൽറ്റി അംഗം ലഭ്യമായ ശൂന്യമായ സ്ലോട്ടുകൾ കണ്ടെത്തുന്നതിൽ ഭാരം വഹിക്കുകയും വിദ്യാർത്ഥികളെ ആ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഈ അധിക സെഷനുകൾ ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണയായി ഇത് സംഭവിക്കുന്നത് കോഴ്സ് ഫലങ്ങളും ലഭ്യമായ സെഷനുകളും തമ്മിലുള്ള പൊരുത്തക്കേട് മൂലമാണ് അതായത് പാഠ്യപദ്ധതിയുടെ രൂപകൽപ്പന തന്നെ വളരെ മോശമാണ് കോഴ്സിൽ അഭിസംബോധന ചെയ്യുന്ന ഉള്ളടക്കം അനുവദിച്ച സമയത്തേക്കാൾ വളരെ കൂടുതലാണ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്യാശ ഉള്ളതാണ് സമയമുണ്ടാകില്ല കാരണം നിങ്ങളുടെ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കണമെങ്കിൽ നിങ്ങൾ വിദ്യാർത്ഥികളെ കാര്യങ്ങൾ പരിശീലിപ്പിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾക്ക് വളരെയധികം ഉള്ളടക്കമുണ്ടെങ്കിൽ നിങ്ങൾ പ്രഭാഷണങ്ങൾ തുടരുകയാണ് മാത്രമല്ല ധാരാളം എണ്ണം സെഷനുകൾ എടുക്കുകയും ചെയ്യും ഒരാൾക്ക് ഒരു കാരണത്താലോ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താലോ 2 3 ക്ലാസുകൾ നഷ്ടമായോ എന്ന് മനസിലാക്കി പരിഹരിക്കാൻ കഴിയും എന്നാൽ ഷെഡ്യൂൾ ചെയ്തതിനപ്പുറം 30 40 സെഷനുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകനും അക്കാദമിക് ന്യായീകരണമില്ല കോഴ്സ് ഫലങ്ങളും ലഭ്യമായ സെഷനുകളും തമ്മിലുള്ള പൊരുത്തക്കേട് കാരണം അധിക സെഷനുകൾ ആവശ്യമായി വന്നേക്കാം ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി അറിവില്ലെന്ന് അധ്യാപകർ കണ്ടെത്തിയേക്കാം ക്ലാസ്സിലേക്ക് വരുന്നതിന് ആവശ്യമായ മുൻവ്യവസ്ഥാ വൈദഗ്ധ്യവും അറിവും വിദ്യാർത്ഥികൾക്ക് ഇല്ല എന്ന അർത്ഥത്തിൽ നിങ്ങൾ അതിനായി അധിക ക്ലാസുകൾ എടുക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം ഇന്നാളുകളിൽ ഇൻറർനെറ്റ് സൌകര്യങ്ങളും ഇൻറർനെറ്റിലേക്കുള്ള പ്രവേശനവും ഉണ്ട് ആവശ്യമായ മുൻവ്യവസ്ഥാപരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വെബ്പേജ് സൃഷ്ടിക്കാൻ കഴിയും അധ്യാപക൯ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ ക്ലാസിലേക്ക് വരുന്നതിനുമുമ്പ് തയ്യാറാക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുക അടിസ്ഥാനപരമായി നിങ്ങൾ ഹൈസ്കൂൾ കാലഘട്ടത്തിലോ അതേ സ്ഥാപനത്തിലെ മുമ്പത്തെ സെമസ്റ്ററുകളിലോ നേരത്തെ ചെയ്ത കാര്യങ്ങൾ ആവർത്തിക്കുന്നു അതായത് ഒരേ മെറ്റീരിയൽ രണ്ടോ മൂന്നോ തവണ പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റുകളിലും അസൈൻമെന്റുകളിലും തൃപ്തികരമല്ലാത്ത പ്രകടനം ഉണ്ടായിരിക്കും ആളുകൾ പൊതുവെ തെറ്റിദ്ധരിച്ചതായി തോന്നുന്ന എന്തെങ്കിലും വീണ്ടും വിശദീകരിക്കുന്നതിന് ഒരു അധിക സെഷൻ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അവസാനമായി ചില സംസ്ഥാനങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു കാരണത്താലോ മറ്റ് സ്ട്രൈക്കുകളിലോ പലതരം തടസ്സങ്ങൾ ഉണ്ടാകാം അതിനർത്ഥം കോളേജ് അടച്ചിരിക്കുന്നു അല്ലെങ്കിൽ കോളേജ് ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളുണ്ട് ഈ കാലയളവിൽ ക്ലാസുകൾ റദ്ദാക്കപ്പെടാം തടസ്സങ്ങൾ ക്ലാസ് ടെസ്റ്റുകളിലെ തൃപ്തികരമല്ലാത്ത പ്രകടനം കോഴ്സ് ഫലങ്ങളും ലഭ്യമായ സെഷനുകളും തമ്മിലുള്ള പൊരുത്തക്കേടും മുൻവ്യവസ്ഥയുടെ അറിവില്ലായ്മയും കാരണം നിങ്ങൾക്ക് അധിക സെഷനുകൾ എടുക്കാൻ കഴിയും നിങ്ങൾ അധിക സെഷനുകൾ എടുക്കുകയാണെങ്കിൽ എന്ത് സെഷനുകളാണ് എടുക്കുന്നതെന്നും എന്തിനാണ് എടുക്കുന്നതെന്നും നിങ്ങൾ രേഖപ്പെടുത്തണം ഓരോ അദ്ധ്യാപകനും അത്തരം രേഖകൾ തയ്യാറാക്കാൻ കഴിയുമെങ്കിൽ ചില ഘട്ടങ്ങളിൽ ഡിപ്പാർട്ട്മെന്റിന് ഇതെല്ലാം ശേഖരിക്കാനും തിരുത്തൽ നടപടികൾ എങ്ങനെ സ്വീകരിക്കാമെന്നും സംവദിക്കാൻ കഴിയും ഉദാഹരണത്തിന് സെഷന്റെ അധിക സ്വഭാവം നിങ്ങൾ കൃത്യമായി എന്താണ് ചെയ്യുന്നത് CO5 C2 നെക്കുറിച്ചുള്ള അധിക പ്രഭാഷണം ഇതുപോലെ എഴുതാൻ ഒരാൾക്ക് കഴിയും ആ അധിക സെഷൻ നടത്താനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് റെക്കോർഡുചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പാഠ്യപദ്ധതി ഈ തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച മാർഗമായി പുനർനിർമിക്കാൻ ഇത് സഹായിക്കും കൂടാതെ നല്ല പഠനം സുഗമമാക്കുന്നതിന് നിങ്ങൾക്ക് സമയവും ലഭിക്കും അധിക സെഷനുകളുടെ റെക്കോർഡ് വകുപ്പിന് തന്നെ നല്ല പ്രതികരണമാണ് നടപ്പിലാക്കൽ ഘട്ടത്തിലെ പ്രവർത്തനങ്ങളിലൊന്ന് വിലയിരുത്തൽ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നതാണ്

ഡിസൈൻ ഘട്ടത്തിൽ ഇത് വ്യാപകമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് നടപ്പാക്കൽ ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കോഴ്സ് ഡെലിവറിയുടെ ഒരു ഉദാഹരണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ സെമസ്റ്ററിനും ആവശ്യമായ എല്ലാ ഫോർമാറ്റീവ് സമ്മേറ്റിവ് ഉപകരണങ്ങളും ഇൻസ്ട്രക്ടർ രൂപകൽപ്പന ചെയ്തിരിക്കണം 3 ടെസ്റ്റുകൾ 2 അസൈൻമെന്റുകൾ 3 ക്വിസുകൾ 1 എൻഡ് സെമസ്റ്റർ പരീക്ഷ എന്നിവ ഉണ്ടെങ്കിൽ അവയെല്ലാം അൽപ്പം മുൻകൂട്ടി രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് ടെസ്റ്റും SEE ഉം എങ്ങനെ സമതുലനാവസ്ഥയിൽ രൂപകൽപ്പന ചെയ്യണമെന്ന് ശ്രദ്ധിക്കുന്നു സെമസ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഐറ്റംബാങ്ക് തയ്യാറാക്കുക സിഒകളും കഴിവുകളും വളരെ വ്യക്തമായതിനാൽ ഒരു ഇൻസ്ട്രക്ടർ നന്നായി ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഐറ്റം ബാങ്ക് ഉണ്ടെങ്കിൽ ആദ്യ തവണ ഇത് ചെയ്യാൻ വളരെയധികം പരിശ്രമിക്കേണ്ടിവരും ഈ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത് താരതമ്യേന എളുപ്പമായിരിക്കും നന്നായി സമതുലിതമായ വിലയിരുത്തൽ എന്നത് ഓരോ സിഒയ്ക്കും ശരിയായ അളവിലുള്ള വെയിറ്റേജിനെയും സിഒകളുമായും കഴിവുകളുമായും ബന്ധപ്പെട്ട കോഗ്നിറ്റീവ് ലെവലുകൾക്ക് മതിയായ വെയിറ്റേജിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സെമസ്റ്ററിന്റെ തുടക്കത്തിൽ നിങ്ങൾ വിലയിരുത്തൽ ഉപകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽപ്പോലും ഉപകരണങ്ങളിൽ അവസാന നിമിഷം ചില മാറ്റങ്ങൾ വരുത്താൻ ഇൻസ്ട്രക്ടർ ആഗ്രഹിച്ചേക്കാം ഈ ദിവസങ്ങളിൽ എല്ലാം കമ്പ്യൂട്ടർവത്കരിക്കപ്പെടുന്നതിനാൽ ഈ അവസാനനിമിഷ മാറ്റങ്ങൾ വരുത്താനും ടെസ്റ്റുകൾ പ്രവർത്തിപ്പിക്കാനും പ്രയാസമില്ല നിങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ഇനങ്ങളുടെ തരം അനുസരിച്ച് ക്വിസുകൾക്കായി എൽഎംഎസ് ഉപയോഗിക്കാൻ കഴിയുന്നതുപോലെ കൂടാതെ വേഗത്തിൽ ഫലങ്ങൾ നേടുന്ന വ്യത്യസ്ത സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെട്ടേക്കാം വിദ്യാർത്ഥിക്ക് നിർദ്ദിഷ്ട ഫോർമാറ്റിൽ അസൈൻമെന്റുകൾ നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും ഉദാഹരണത്തിന് അവർക്ക് അതിന്റെ ഒരു ചിത്രമെടുത്ത് വാട്ട്സ്ആപ്പിലോ ഒരു എൽഎംഎസിലോ അയയ്ക്കാൻ കഴിയും എല്ലാ ഉപകരണങ്ങളിലെയും എല്ലാ ഇനങ്ങളും സിഒകൾ കഴിവ് കോഗ്നിറ്റീവ് ലെവലുകൾ എന്നിവ ഉപയോഗിച്ച് ടാഗുചെയ്യണം ഈ മൂന്ന് ടാഗുകളും നിർബന്ധിതമാണ് അതോടൊപ്പം നേട്ടങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ തുടർന്നുള്ള എല്ലാ കണക്കുകൂട്ടലുകളും അല്ലെങ്കിൽ ഉപകരണം എത്രത്തോളം സന്തുലിതമാണെന്നറിയാൻ ട്രാക്കുചെയ്യാനും കഴിയും മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത് ഒരു പ്രധാന പ്രവർത്തനമാണ് പ്രത്യേകിച്ചും നിങ്ങൾ ആദ്യമായി അല്ലെങ്കിൽ രണ്ടാം തവണ കോഴ്സ് നൽകുകയാണെങ്കിൽ എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ സ്ഥിരത കൈവരിക്കണം നല്ല മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിന് സമ്മർദ്ദം കുറവായിരിക്കണം സമ്മേറ്റിവ് മൂല്യനിർണ്ണയ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ സിഒകളുടെയും നേട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് ചില സിഇഒകളെ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് ഉദാഹരണത്തിന് പലർക്കും എപ്പോഴും എ പ്ലസ് ലഭിക്കുമെന്നതിൽ താൽപ്പര്യമില്ല അവർ പറയുന്നു ഞാൻ ന്യായമായും നന്നായി ചെയ്താൽ അത് എനിക്ക് പര്യാപ്തമാണ് ആ പ്രക്രിയയിൽ ഞാൻ എന്റെ ശ്രമം എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യും മൂല്യനിർണ്ണയ ഉപകരണത്തിന്റെ ക്രമം നോക്കുന്നതിലൂടെ അവർ ചില ഭാഗങ്ങൾ പരിഗണനയിൽ നിന്ന് വിടാൻ തുടങ്ങും അപ്പോൾ കോഴ്സിന്റെ ഉദ്ദേശ്യം തന്നെ നഷ്ടപ്പെടും ആളുകൾക്ക് ചില തിരഞ്ഞെടുക്കലുകൾ ആവശ്യമുണ്ട് ചോയ്സ് നൽകുന്നത് അത് ഒരേ സിഒകളുടേ ഇനങ്ങൾക്കിടയിലായിരിക്കണം അത് രണ്ട് വ്യത്യസ്ത സിഒകൾക്കിടയിലായിരിക്കരുത് ഈ സാഹചര്യത്തിൽ ഒരു സിഒയെ പൂർണ്ണമായും അവഗണിക്കാൻ കഴിയും നിങ്ങൾ ഒരു കോഴ്സിന്റെ CO കളിലേക്ക് നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് മിക്കപ്പോഴും CO1 CO2 ന് ഒരു മുൻവ്യവസ്ഥയാണ് CO2 CO3 ന് ഒരു മുൻവ്യവസ്ഥയാണ് അതിനർത്ഥം മുമ്പത്തെ സിഒകൾ പിന്നീടുള്ള സിഒഎകൾക്ക് മുൻവ്യവസ്ഥയാണ് നിങ്ങൾ ചോദിച്ചാൽ ടെസ്റ്റ് 1 ടെസ്റ്റ് 2 ടെസ്റ്റ് 3 SEE മുതലായവ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അന്തിമ ഗ്രേഡുകൾ തീരുമാനിക്കുന്നതിൽ CO1 CO2 CO3 എന്നിവയ്ക്ക് അധിക വെയിറ്റേജ് നൽകാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയെങ്കിലും ഇത് പരോക്ഷമായോ മനപൂർവ്വമോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ചില സിഒകളെക്കുറിച്ച് പോലും ക്ലേശിക്കരുതെന്ന് സിസ്റ്റം തന്നെ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നതായി തോന്നുന്നു എല്ലാ സിഒകളെയും പറ്റി വിദ്യാർത്ഥികൾ എല്ലാം പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സാധാരണയായി എങ്ങനെയെങ്കിലും ചില ഭാഗങ്ങൾ വിദ്യാർത്ഥികൾ ഉപേക്ഷിക്കുന്നതിന് ഇത് കാരണമാകുന്നു രൂപകൽപ്പനഘട്ടത്തിൽ ഞങ്ങൾ നൽകിയ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഒരു ഐറ്റംബാങ്ക് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഏകീകൃത ഗുണനിലവാരമുള്ള എല്ലാ മൂല്യനിർണ്ണയ ഉപകരണങ്ങളും സൃഷ്ടിക്കുന്നത് എളുപ്പമാകും അത്തരമൊരു ഐറ്റംബാങ്ക് സൃഷ്ടിക്കാൻ സമയമെടുക്കുമെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു ഈ ദിവസങ്ങളിൽ ധാരാളം വിവരങ്ങൾ ഇൻറർനെറ്റിൽ ലഭ്യമാണ് അവിടെ ഓരോ വിഷയത്തിനും ധാരാളം ചോദ്യങ്ങൾ ലഭ്യമാണ് അവയെല്ലാം ശേഖരിക്കുക ക്യൂറേറ്റ് ചെയ്യുക ചെറുതായി പരിഷ്കരിക്കുക നിങ്ങളുടെ കോഴ്സിനായി കുറച്ച് ദിവസത്തെ കഠിന പരിശ്രമം ഉപയോഗിച്ച് ഒരു ചോദ്യ ബാങ്ക് ഉണ്ടാക്കിയിരിക്കാം ഒരുപക്ഷേ അത് നിങ്ങളുടെ ആരംഭ പോയിന്റായിരിക്കാം ലഭ്യമായ ചോദ്യങ്ങൾ ക്യൂറേറ്റ് ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഫലങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിന് ശേഷം നിങ്ങൾ അവ ഉചിതമായി ടാഗുചെയ്യേണ്ടതുണ്ട് അത് നിങ്ങളുടെ ഐറ്റം ബാങ്കിന്റെ ആരംഭ പോയിന്റായിരിക്കും അസൈൻമെന്റുകൾ ക്ലാസ് ടെസ്റ്റുകൾ മുതലായവയിലെ പ്രകടനം നോക്കിയ ശേഷം നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകളാണിവയെന്നും അതിന്റെ അവസാനമാണെന്നും പറയാൻ കഴിയില്ല അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാർത്ഥികളെ സഹായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർ വേണ്ടത്ര മനസ്സിലാക്കാത്തയിടത്ത് അല്ലെങ്കിൽ വേണ്ടത്ര പരിശീലനം നടത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ചൂണ്ടിക്കാണിക്കുക അവർ എന്താണ് ചെയ്യേണ്ടത് അതിനാൽ എല്ലാ CIE വിലയിരുത്തലുകൾക്കും ശേഷം ഒരാൾ വിദ്യാർത്ഥികൾക്ക് ഫീഡ്ബാക്ക് നൽകേണ്ടതുണ്ട് മുഴുവൻ ക്ലാസ് പ്രകടനവും നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകേണ്ട ഫീഡ്ബാക്ക് നിർമ്മിക്കാൻ കഴിയും ഓരോന്നായിട്ടല്ല ട്യൂട്ടോറിംഗിലെ പോലെയല്ല ഈ ഫീഡ്ബാക്ക് ഉൾപ്പെടുന്ന വിഷയത്തിന് മാത്രമായുള്ള കുറച്ച് പ്രസ്താവനകളുടെ രൂപത്തിലാകാം ആശയങ്ങൾ മനസിലാക്കുന്നതിലും അല്ലെങ്കിൽ നടപടിക്രമപരിജ്ഞാനം പ്രയോഗിക്കുന്നതിലും പിശകുകൾ ഉണ്ടായിരിക്കാം ഇതെല്ലാം നിങ്ങൾ എഴുതുമ്പോൾ അവ ഇൻസ്ട്രക്ടർക്കുള്ള ഒരു ഫീഡ്ബാക്കായി പ്രവർത്തിക്കുന്നു നിരവധി വിദ്യാർത്ഥികൾ ഒരു പ്രത്യേക തെറ്റ് ചെയ്യുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതിനർത്ഥം ഇൻസ്ട്രക്ടർ ശരിയാക്കേണ്ടതും തുടർന്നുള്ള നിർദ്ദേശങ്ങൾ ക്രമീകരിക്കേണ്ടതുമാണ് ഈ ഫീഡ്ബാക്കുകളെല്ലാം കോഴ്സിന്റെ അടുത്ത ഓഫർ കൂടുതൽ മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്യാൻ അധ്യാപകനെ സഹായിക്കും നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നതുപോലെ ഒരു പട്ടിക സൃഷ്ടിക്കാൻ കഴിയും ആവശ്യാനുസരണം വരികൾ ചേർക്കാനോ ഇല്ലാതാക്കാനോ കഴിയും വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളെ ആശ്രയിച്ച് നിങ്ങൾക്ക് നിരവധി പ്രസ്താവനകൾ എഴുതാൻ കഴിയും നിങ്ങൾ ഒരു പട്ടികയുടെ രൂപത്തിൽ പിടിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം ഘടനാപരമാണ് മൂല്യനിർണ്ണയ ഉപകരണങ്ങളെയും വിദ്യാർത്ഥികളുടെ പ്രകടനത്തെയും കുറിച്ചുള്ള നിരീക്ഷണങ്ങളും ഞങ്ങൾ പരിശോധിക്കും ഓരോ വർഷവും വിദ്യാർത്ഥികൾ വ്യത്യസ്തരാണ് വ്യത്യസ്ത വിലയിരുത്തലുകളിലെ അവരുടെ പ്രകടനവും വ്യത്യാസപ്പെടും മൂല്യനിർണ്ണയ ഉപകരണങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചോ വിദ്യാർത്ഥികളുടെ പ്രകടനത്തെക്കുറിച്ചോ ഇൻസ്ട്രക്ടറുടെ നിരീക്ഷണങ്ങൾ റെക്കോർഡുചെയ്യുന്നതിലൂടെ അടുത്ത തവണ അതേ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ വിലയിരുത്തൽ മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം സഹായിക്കുന്നു ഒരാൾ വളരെ എളുപ്പമുള്ള ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ടെസ്റ്റ് പേപ്പർ നൽകാം അതിനാൽ ഇത് ബുദ്ധിമുട്ടുള്ള ഒരു ടെസ്റ്റ് പേപ്പറാണെങ്കിൽ പല വിദ്യാർത്ഥികൾക്കും മികച്ച പ്രകടനം നടത്താൻ കഴിയില്ല ഇത് ഒരു എളുപ്പമുള്ള ടെസ്റ്റ് പേപ്പറാണെങ്കിൽ എല്ലാവരും ഉയർന്ന മാർക്ക് നേടും അതിനാൽ ഇത്തരത്തിലുള്ളത് ഒരു ഫീഡ്ബാക്കായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ ടെസ്റ്റ് പേപ്പറിന്റെ ബുദ്ധിമുട്ട് നില ക്രമീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ ഓരോ സെമസ്റ്ററിലും അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരു പതിവായി മാറുന്നു ഒരു മിനി പ്രോജക്റ്റ് ഉദാഹരണത്തിന് ഒരു മിനി പ്രോജക്റ്റ് മൂല്യനിർണ്ണയ ഉപകരണങ്ങളിലൊന്നാണെങ്കിൽ അത് അഭിലാഷമായിരിക്കാം ഇത് സാധാരണയായി സംഭവിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ വേണ്ടത്ര ശ്രമം നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ആവശ്യമായ വിവരങ്ങളിലേക്കുള്ള പ്രവേശനം പര്യാപ്തമല്ല ഒരു മിനി പ്രോജക്റ്റ് പരിഗണിച്ചുകഴിഞ്ഞാൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്കായി വിഭവങ്ങൾ പ്രോജക്റ്റിന്റെ വ്യാപ്തി എന്നിവ നന്നായി കാര്യക്ഷമമാക്കേണ്ടതുണ്ട് മാത്രമല്ല അത് വെല്ലുവിളിയാക്കാനുള്ള വഴികളും മാർഗങ്ങളും കണ്ടെത്തേണ്ടതുണ്ട് മിനി പ്രോജക്റ്റിനെ മികച്ചതാക്കാൻ കുറച്ച് ശ്രമം ആവശ്യമാണ് മിനി പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് പ്രകടനത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ റെക്കോർഡുചെയ്യുന്നതിലൂടെ ഒരാൾക്ക് മിനി പ്രോജക്റ്റിനെ തുടർച്ചയായി മികച്ചതാക്കാൻ കഴിയും വിദ്യാർത്ഥികളുടെ പ്രകടനം ഇതുപോലെ പകർത്താനാകും ഓരോ വിദ്യാർത്ഥിയുടെയും പ്രകടനം ഈ വിഭാഗങ്ങളായി തിരിക്കാം ഇത് ഒരു സൂചകം മാത്രമാണ് ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് അവൾക്ക് ശതമാനം പുനക്രമീകരിക്കാനും കഴിയും ഈ പ്രൊഫൈലോ വിദ്യാർത്ഥികളുടെ പ്രകടനമോ നേടുന്നതിലൂടെ അവസാന നിരയിൽ ഒരാൾക്ക് ഇൻസ്ട്രക്ടറുടെ നിരീക്ഷണങ്ങൾ എഴുതാൻ കഴിയും ഇത് ഇൻസ്ട്രക്ടർക്കും വാസ്തവത്തിൽ ഡിപ്പാർട്ട്മെന്റിനും മികച്ച ഫീഡ്ബാക്ക് നൽകും പരിഗണനയ്ക്കായി മറ്റൊരു ഫീഡ്ബാക്ക് ഉണ്ട് ഒരു പ്രത്യേക ബാച്ചിലേക്ക് ഞാൻ ഒരു കോഴ്സ് പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് അവരുടെ പശ്ചാത്തലം അനുസരിച്ച് നിങ്ങൾ മന്ദഗതിയിലോ വേഗതയിലോ പോകുന്നുവെന്ന് അവർ കണ്ടെത്തിയേക്കാം ഇത് വളരെ മന്ദഗതിയിലാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് താൽപര്യം നഷ്ടപ്പെടും അത് പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വളരെ വേഗതയുള്ളതാണെങ്കിൽ അവരും മാനസികമായി ഉപേക്ഷിക്കും എന്നാൽ സെമസ്റ്റർ ഫീഡ്ബാക്കിന്റെ അവസാനത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അധ്യാപകന് കൂടുതലായി ഒന്നും ചെയ്യാനാകില്ല അതിനാൽ സെമസ്റ്ററിന്റെ മധ്യത്തിൽ കുറഞ്ഞത് ഒന്നോ രണ്ടോ തവണ ഫീഡ്ബാക്ക് ലഭിക്കുന്നത് നല്ലതാണ് അതിനാൽ നിങ്ങൾ സെമസ്റ്ററിന്റെ മധ്യത്തിൽ ഫീഡ്ബാക്ക് എടുക്കുകയാണെങ്കിൽ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി നിർദ്ദേശങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഇത് ഇൻസ്ട്രക്ടറെ അനുവദിക്കും ഇൻസ്ട്രക്ടർക്ക് ഒരു ലളിതമായ ഫീഡ്ബാക്ക് ഫോം സൃഷ്ടിക്കാൻ കഴിയും ഞങ്ങൾ ഇവിടെ ഒരു സാമ്പിൾ കാണിക്കും കോഴ്സിന്റെ കോഴ്സ് ഫലങ്ങൾ ആദ്യ കുറച്ച് ക്ലാസുകളിൽ ടീച്ചർ വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇത് 0 വ്യക്തമല്ലെന്ന് റാങ്ക് ചെയ്യാൻ കഴിയും വളരെ വ്യക്തമാണ് 5 അതിനാൽ അവസാന നിരയിൽ 0 നും 5 നും ഇടയിൽ ഒരു സംഖ്യ ഇടാം ക്ലാസ് റൂം നിർദ്ദേശം പ്രഖ്യാപിത കോഴ്സ് ഫലങ്ങളുമായി വിന്യസിക്കുന്നതാണ് 0 വിന്യാസം ഇല്ല 5 പൂർണ്ണമായ വിന്യാസം ചിലപ്പോൾ ചില കാരണങ്ങളാൽ മറ്റ് പ്രധാന വിഷയങ്ങളിൽ നിന്ന് അധ്യാപകർ അകന്നുപോകുകയും കുറച്ച് സമയം വ്യതിചലിച്ച് ചിലവഴിക്കുകയും ചെയ്യുന്നു നിർദ്ദേശത്തിന്റെ വേഗത പിന്തുടരാൻ സുഖകരമാണ് ഓരോ വ്യക്തിയും വിദ്യാർത്ഥികൾക്ക് സുഖകരമോ അല്ലാത്തതോ ആയ വേഗതയിൽ സംസാരിക്കുന്നു അതിനായി അധ്യാപകൻ സ്വയം ക്രമീകരിക്കേണ്ടതുണ്ട് ആശയങ്ങളും നടപടിക്രമങ്ങളും എല്ലാം നന്നായിയോ അല്ലാതെയോ ചിത്രീകരിച്ചു ക്ലാസ് മുറിയിൽ വ്യക്തത തേടാൻ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് മുഴുവനായോ തീരെ ഇല്ലാതെയോ ക്ലാസ് മുറിയിലെ ആശയവിനിമയം ഫലപ്രദവും ചോക്ക്ബോർഡ് അല്ലെങ്കിൽ വൈറ്റ്ബോർഡ് അല്ലെങ്കിൽ പിപിടി അവതരണം ഫലപ്രദവുമായിരുന്നു പഠന സാമഗ്രികളിലേക്കുള്ള പ്രവേശനം ബുദ്ധിമുട്ടായിരുന്നു അതിനർത്ഥം മെറ്റീരിയൽ എളുപ്പത്തിൽ ലഭ്യമല്ല നിർദ്ദേശിച്ച പാഠപുസ്തകം നല്ലതായിരിക്കാം പക്ഷേ അത് ലൈബ്രറിയിലില്ല അല്ലെങ്കിൽ എളുപ്പത്തിൽ ലഭ്യമല്ല ഈ ദിവസങ്ങളിൽ പഠന സാമഗ്രികളുടെ ലഭ്യത വലിയ പ്രശ്നമല്ല നിങ്ങൾ 8 ഇനങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല ഇവിടെ നൽകിയിരിക്കുന്നതുപോലെ കൃത്യമായി ഇനങ്ങൾ എഴുതേണ്ടതില്ല അതിനാൽ ഒരാൾക്ക് സ്വന്തം ഫോം ചെറിയ എണ്ണം ചോദ്യങ്ങൾ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്യാൻ കഴിയും അങ്ങനെ അത് അധ്യാപകന് ഒരു നല്ല ഫീഡ്ബാക്കായി പ്രവർത്തിക്കുന്നു കൂടാതെ അവന് അവൾക്ക് ചെറിയ ക്രമീകരണങ്ങൾ ചെയ്യാനും കഴിയും നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിലോ രണ്ടു സെമസ്റ്ററിലോ അല്ലെങ്കിൽ ആദ്യത്തെ ടെസ്റ്റിന് ശേഷവും രണ്ടാമത്തെ ടെസ്റ്റിനുശേഷവും ഒരോ തവണയും ഇത് ചെയ്യാൻ കഴിയും ഈ സർവേയിൽ പങ്കെടുക്കാൻ ഉചിതമായ സമയം ഏതെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം വിദ്യാർത്ഥിയുടെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്കിന്റെ സംഗ്രഹം ഒരു കൂട്ടം പ്രസ്താവനകളായി എഴുതുന്നു 60 വിദ്യാർത്ഥികളുണ്ടെന്നും അവർ നിങ്ങളുടെ ഫീഡ്ബാക്ക് നൽകിയിട്ടുണ്ടെന്നും അത് ഒരു കൂട്ടം പ്രസ്താവനകളായി നിങ്ങൾ സ്വയം കുറിപ്പുകൾ എഴുതുന്നുവെന്നും ഞങ്ങൾ പറയട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കൂടുതൽ വരികൾ ചേർക്കാൻ കഴിയും വിദ്യാർത്ഥികളുടെ പ്രകടനത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന പ്രവർത്തനം ഇന്ന് ഒരു സ്പ്രെഡ്ഷീറ്റ് സൃഷ്ടിച്ച് ഏത് വിവരങ്ങളും അഭിപ്രായങ്ങൾ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കായി നമ്പറുകൾ നൽകുന്നത് വളരെ സൌകര്യപ്രദമാണ് നിങ്ങൾക്ക് ഒരു സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും നിങ്ങൾക്ക് വിദ്യാർത്ഥികളെ തരംതിരിക്കാം ഏത് വിദ്യാർത്ഥിയാണ് ഏത് മേഖലയിലാണ് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നതെന്ന് കണ്ടെത്താനാകും MOODLE പോലുള്ള ഒരു പഠനമാനേജുമെന്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ ട്രാക്കുചെയ്യുന്നതിനുള്ള നിരവധി രീതികൾ സാധ്യമാകും ഒരു പഠനമാനേജുമെന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പരസ്യമാണിതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും കൂടുതൽ ഉപയോഗിക്കിച്ചാൽ നിങ്ങൾക്ക് വിദ്യാർത്ഥികളുമായുള്ള നിങ്ങളുടെ ആശയവിനിമയം മെച്ചപ്പെടുത്താനാകും അഭ്യാസം നിങ്ങളുടെ കോഴ്സിനായി നിങ്ങളുടെ സ്വന്തം വിദ്യാർത്ഥികളുടെ മിഡ് സെമസ്റ്റർ ഫീഡ്ബാക്ക് ഫോം രൂപകൽപ്പന ചെയ്യുക ദയവായി 8 ഇനങ്ങളിൽ കൂടുതൽ ഉണ്ടാക്കരുത് കാരണം ഇത് ഒരു വലിയ ഫോം അല്ലെങ്കിൽ ഉത്തരം നൽകേണ്ട നിരവധി ചോദ്യങ്ങളാണെങ്കിൽ എല്ലാവർക്കും താൽപ്പര്യം നഷ്ടപ്പെടും അത് നടപ്പിലാക്കുന്ന ഘട്ടത്തിന്റെ അവസാനമാണ് അടുത്ത യൂണിറ്റിൽ ഞങ്ങൾ വിലയിരുത്തൽ ഘട്ടത്തിന്റെ പ്രക്രിയകൾ പരിശോധിക്കും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി